ഈ പാഠത്തിൽ നമ്മൾ ആംപ്ലിഫയറുകളെക്കുറിച്ചുചർച്ച ചെയ്യും കോഴ്സിന്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കോഴ്സ് ആംപ്ലിഫയറുകളെക്കുറിച്ചാണ് അതിനാൽ ഈ പാഠത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ആംപ്ലിഫൈയിംഗ് ഉപകരണത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ മനസിലാക്കുക എന്നതാണ് ഇപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ആംപ്ലിഫയർ ഉപകരണത്തിലേക്കല്ല നോക്കുന്നത് ആംപ്ലിഫയർ ഉപകരണങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട പൊതുവായ സ്വഭാവത്തെക്കുറിച്ച് മാത്രമാണ് ആംപ്ലിഫയറിന് ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട് അതിനാൽ ഇത് രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ആണെന്ന് ഞങ്ങൾ അനുമാനിക്കും അതിനാൽ ഒരു പോർട്ടിലേക്ക് ഞങ്ങൾ ഇൻപുട്ട് ഫീഡ് ചെയ്യും മറ്റൊരു പോർട്ടിൽ നിന്ന് ഞങ്ങൾ ഔട്ട്പുട്ട് എടുക്കും എളുപ്പത്തിനായി ഇതുപോലുള്ള മൂന്ന് ടെർമിനൽ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ഞാൻ പരിഗണിക്കട്ടെ നിങ്ങളുടെ അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ട് ക്ലാസിൽ അത്തരം രണ്ട് പോർട്ടുകളുടെ പ്രാതിനിധ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതാണ് പോർട്ട് 1 പോർട്ട് 2 ഇതാണ് പൊതുവായ ടെർമിനൽ ഇപ്പോൾ പറയാം ഞാൻ ഒരു സിഗ്നൽ പ്രയോഗിക്കുന്നു അത് പോർട്ട് 1 ലേക്ക് വിളിക്കുക v1 ആണെന്ന് പറയാം കൂടാതെ പോർട്ട് വോൾട്ടേജുകളുടെയും കറന്റുകളുടെയും v1 i1 എന്നിവയുടെ നിർവചനവും ഞാൻ എഴുതാം രണ്ടാമത്തെ പോർട്ടിൽ v2 i2 എന്നിവയും രണ്ടാമത്തെ പോർട്ടിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതെന്ന് പറയാം വീണ്ടും ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് ഉറവിടം കാണിച്ചു പക്ഷേ അത് ഇതുപോലെയാകണമെന്നില്ല ഇതിന് ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം അത് നിലവിലെ ഉറവിടം ആകാം കാരണം ഞങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന എല്ലാ വാദങ്ങളും പൊതുവായതും പോർട്ട് വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ഈ ഭാഗത്തേക്കോ ഈ വശത്തേക്കോ ബന്ധിപ്പിച്ചിരിക്കുന്നത് പ്രശ്നമല്ല ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ നെറ്റ്വർക്കുകളും നിഷ്ക്രിയമാണ് അതായത് അതിനുള്ളിൽ ഊർജ്ജ സ്രോതസ്സില്ല അതിന് പവറിനെ വിഘടിപ്പിക്കാൻ മാത്രമേ കഴിയൂ അപ്പോൾ ഈ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് N എന്താണ് അർത്ഥമാക്കുന്നത് ഇത് നിഷ്ക്രിയമാണ് അതിനാൽ അതിനർത്ഥം v1 i1 v2 i2 പൂജ്യത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് അല്ലെങ്കിൽ ഇത് പൂജ്യത്തിന് തുല്യമായിരിക്കാം ഈ സാഹചര്യത്തിൽ അത് ഒരു വൈദ്യുതിയോർജ്ജം ഇല്ലാതാക്കുന്നില്ല അതിനാൽ അതിന് ഒരു വൈദ്യുതിയോർജ്ജം ഉത്പാദിപ്പിക്കാൻ കഴിയില്ല അതിനുള്ളിൽ വൈദ്യുതിയോർജ്ജത്തിന്റെ ഉറവിടമില്ല ഇപ്പോൾ ഒരു ആംപ്ലിഫയറിന് എന്താണ് അർത്ഥമാക്കുന്നത് ഒന്നാമതായി ഞങ്ങൾക്ക് ആംപ്ലിഫിക്കേഷൻ വേണം അതിന്റെ അർത്ഥം ആംപ്ലിഫയർ പി യിൽ ഇടുന്ന പവർ പുറത്തുവരുമ്പോൾ വലുതാകണം അതായത് ഒരു ആംപ്ലിഫയറിന് വേണ്ടി ഞങ്ങൾക്ക് Pout - വേണം പുറത്തുവരുന്ന പവർ അകത്തേക്ക് പോകുന്ന പവറിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലാത്തപക്ഷം ആംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല അതിനാൽ ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സർക്യൂട്ടിന് പവർ വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കാം കാരണം ഞങ്ങളുടെ എല്ലാ നെറ്റ്വർക്കുകളും നിഷ്ക്രിയമാണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ v1 i1 v2 i2 പൂജ്യത്തേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് ഇപ്പോൾ എന്താണ് ഇൻപുട്ട് പവർ Pin Pin എന്നത് v1 i1 ആണ് അതിനാൽ v1 ന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറന്റ് i1 ആണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നെറ്റ്വർക്കിന്റെ പോർട്ടിലേക്ക് പോകുന്ന ഈ വോൾട്ടേജ് സോഴ്സ് നൽകുന്ന പവർ v1 i1 ആണ് നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷൻ അനുസരിച്ച് ലോഡിലേക്ക് ഒഴുകുന്ന കറന്റിന്റെ v2 മടങ്ങ് വരുന്ന ലോഡിന് കുറുകെയുള്ള വോൾട്ടേജാണ് ലോഡിലേക്ക് വിതരണം ചെയ്യുന്നത് i2 അതിനാൽ ഔട്ട്പുട്ട് പവർ v2 i2 പാസീവ് സൈൻ കൺവെൻഷൻ അനുസരിച്ചാണ് ഞങ്ങൾ v2 i2 എന്നിവയുടെ അടയാളങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ഓർക്കുക അതിനാൽ രണ്ട് പോർട്ടുകളിൽ നിന്നും പുറത്തുവരുന്ന പവർ ഇതാണ് v2 i2 ഇപ്പോൾ നിങ്ങൾ ഇത് v2 i2 മറുവശത്തേക്ക് കൊണ്ടുപോയി പുനഃക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ കാണാനാകും v2 i2 v1 i1 നേക്കാൾ കുറവോ തുല്യമോ ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ Pout എന്നത് Pin എന്നതിനേക്കാൾ കുറവോ തുല്യമോ ആണ് ഇപ്പോൾ ഇത് വളരെ ആശ്ചര്യകരമല്ല ഉപകരണം പവർ ഡിസ്സിപ്പേറ്റ് ചെയ്യുന്നുവെന്ന് പറയുന്നതിനുള്ള ഒരു റൌണ്ട് എബൌട്ട് രീതി പോലെയാണ് ഇത് കാണപ്പെടുന്നത് കാരണം ഉപകരണം നിഷ്ക്രിയമാണെന്ന് ഞങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇത് പവർ ഡിസ്സിപേറ്റ് ചെയ്യുന്നു മാത്രമല്ല ഇവിടെ മറ്റ് പവർ സ്രോതസ്സുകളൊന്നുമില്ലെന്ന് ഓർമ്മിക്കുക ഇൻപുട്ട് v1 ആണ് ഊർജ്ജത്തിന്റെ ഏക സ്രോതസ്സ് അതിനാൽ രണ്ട് പോർട്ടിൽ നിന്നും പുറത്തുവരുന്നതെന്തും സോഴ്സ് v1 നൽകുന്ന പവറിനേക്കാൾ കുറവോ തുല്യമോ ആണ് ഇപ്പോൾ ഞാൻ ഈ കണക്കുകൂട്ടലുകൾ കാണിച്ചതിന്റെ കാരണം ഞങ്ങൾ വിശദീകരിക്കും ഇത് പിന്നീട് ഒരു വൈദ്യുതിയോർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ മറ്റ് ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽ അത് ഉപയോഗിക്കുന്നതിന് ഞാൻ ഈ കണക്കുകൂട്ടലുകൾ നിങ്ങൾക്ക് കാണിച്ചുതന്നു എന്നാൽ കണക്കുകൂട്ടലുകൾ അടിസ്ഥാനപരമായി കാണിക്കുന്നത് വൈദ്യുതിയോർജ്ജത്തിന്റെ സോഴ്സ് ഒന്നേയുള്ളൂ എന്നാണ് ഇവിടെ അത് v1 ആണ് അതൊരു നിഷ്ക്രിയ നെറ്റ്വർക്കാണ് അതിനാൽ അതിന് വൈദ്യുതിയോർജ്ജം വിഘടിപ്പിക്കാൻ മാത്രമേ കഴിയൂ അതിനാൽ പുറത്തുവരാൻ കഴിയുന്നത് ഒരൊറ്റ വൈദ്യുതിയോർജ്ജം സ്രോതസ്സിലൂടെ കടന്നുപോകുന്നതിനേക്കാൾ കുറവായിരിക്കും